ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡൈഇലക്ട്രിക് മെറ്റീരിയലിന്റെ സാന്നിധ്യത്തിൽ I ഡൈഇലക്ട്രിക്ക് വസ്തുക്കളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ധ്രുവീകരണ സാധ്യതയുള്ള അഥവാ പോളറൈസബിൾ വസ്തുക്കളെക്കുറിച്ച് കൂടി പറഞ്ഞിരുന്നല്ലോ അവിടെ നമ്മൾ പുതിയ ഒരു ക്വാണ്ടിറ്റി ഇലക്ട്രിക്ക് ഡിസ്പ്ലേസ്മെന്റ് D കൂടി പരിചയപ്പെട്ടു ഇതിനു പുറമെ നമ്മൾ പോളറൈസേഷൻ P ഇലക്ട്രിക്ക് ഫീൽഡ് E ബന്ധിത ചാർജുകൾ അഥവാ ബൌണ്ട് ചാർജുകൾ കാരണം ഉളവാകുന്ന സർഫേസ് ബൌണ്ട് ചാർജ് b വോളിയം അഥവാ ബൾക്ക് ബൌണ്ട് ചാർജ് b ഇവയും എന്താണെന്ന് പറഞ്ഞു അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ക്വാണ്ടിറ്റികൾ അതായത് D P E b b ഇവ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് ഡൈഇലക്ട്രിക്കുകളെക്കുറിച്ച് വിശേഷിച്ച് രേഖീയ അഥവാ ലീനിയർ ഡൈഇലക്ട്രിക്കുകളെക്കുറിച്ച് കൂടുതലായി മനസിലാക്കാം ഇത്തരം വസ്തുക്കൾ സ്വാഭാവികമായി പോളറൈസേഷൻ ഇല്ലാത്തവയാണ് എന്നാൽ ഇത്തരം വസ്തുക്കളെ ഒരു ഇലക്ട്രിക്ക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അവയിൽ പോളറൈസേഷൻ P സംജാതമാകുന്നു ഇവിടെ r ദൂരത്തിലുള്ള ബിന്ദുവിൽ ഉണ്ടാകുന്ന പോളറൈസേഷൻ ഈ സമവാക്യത്തിൽ ഉള്ള E എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രയോഗിക്കപ്പെട്ട ബാഹ്യ ഇലക്ട്രിക്ക് ഫീൽഡ് അല്ല എന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം E എന്നത് നമ്മൾ പ്രയോഗിച്ച ബാഹ്യ ഇലക്ട്രിക്ക് ഫീൽഡും പോളറൈസേഷൻ കാരണം ഉണ്ടാക്കപ്പെട്ട പ്രേരിത ചാർജ് അഥവാ ഇൻഡ്യൂസ്ഡ് ചാർജ് കാരണമുള്ള ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക്ക് ഫീൽഡും ചേർന്നുള്ളതാണ് അതായത് E എന്നത് ഇവ രണ്ടും ചേർന്ന് r ൽ ഉണ്ടാകുന്ന സഫല ഇലക്ട്രിക്ക് ഫീൽഡ് ആണ് e എന്നത് ഈ ഡൈഇലൿട്രിക്കിന്റെ തനതായ സ്ഥിരാങ്കം അഥവാ ക്യാരക്ടറിസ്റ്റിക് കോൺസ്റ്റന്റ് ഇതിനെ ഡൈഇലക്ട്രിക്ക് മാധ്യമത്തിന്റെ വൈദ്യുത സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നു അതായത് e എന്നത് ഒരു ഡൈഇലക്ട്രിക്ക് ബാഹ്യ ഇലക്ട്രിക്ക് ഫീൽഡിനോട് എത്രത്തോളം വിധേയമാവുന്നു അല്ലെങ്കിൽ ബാഹ്യ ഇലക്ട്രിക്ക് ഫീൽഡിനാൽ എത്രത്തോളം സ്വാധീനിക്കപ്പെടുന്നു എന്നതിനെ കാണിക്കുന്നു r ലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനിൽ നേരത്തെ കിട്ടിയ P e 0 E എന്ന സബ്സ്റ്റിട്യൂഷൻ ചെയ്താൽ അതായത് ഇവിടെ 1 e K എന്നിരിക്കട്ടെ K എന്നത് ഡൈഇലക്ട്രിക്ക് കോൺസ്റ്റന്റ് എന്ന് എടുക്കാം അപ്പോൾ കാരണം 𝜖0E 𝜖 അഥവാ ഡൈഇലക്ട്രിക്ക് മാധ്യമത്തിന്റെ പെർമിറ്റിവിറ്റി എന്നെടുക്കാവുന്നതാണ് അടുത്തതായി ഇലക്ട്രോസ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം ഡൈഇലക്ട്രിക്കിന്റെ സാന്നിധ്യത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരം കാണാനായി നമുക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ഫോർമുലകൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഫോർമുല നമുക്കറിയാവുന്ന മറ്റൊരു ഫോർമുല ഇതനുസരിച്ച് നമുക്ക് ഇലക്ട്രിക്ക് ഫീൽഡിനെ പൊട്ടൻഷ്യലിന്റെ ഗ്രേഡിയന്റ് ആയി എഴുതാവുന്നതാണ് അതായത് അടുത്തതായി നമുക്ക് ഒരു ഡൈഇലക്ട്രിക്ക് മെറ്റീരിയൽ എടുക്കാം അതിനടുത്തായി ഒരു ചാർജ് വിന്യാസം ഉണ്ടെന്നിരിക്കട്ടെ ഈ ചാർജ് കാരണം ഒരു ഇലക്ട്രിക്ക് ഫീൽഡ് ഉണ്ടെന്നിരിക്കട്ടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് അടുത്തതായി നമുക്ക് ഈ ഡൈഇലക്ട്രിക്കിലുണ്ടാകുന്ന പോളറൈസേഷൻ P എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് D ഇലക്ട്രിക്ക് ഫീൽഡ് E ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കണം ഇപ്രകാരം D യും E യുമായുള്ള അല്ലെങ്കിൽ P യും E യുമായുള്ള ബന്ധത്തിനെ കോൺസ്റ്റിട്യൂട്ടിവ് റിലേഷൻ എന്ന് വിളിക്കുന്നു രേഖീയ അഥവാ ലീനിയർ ഡൈഇലക്ട്രിക്കുകളുടെ കാര്യത്തിൽ ഇത്തരം ബന്ധം നമ്മൾ കണ്ടുകഴിഞ്ഞതാണല്ലോ അവിടെ എന്താണ് നമുക്ക് കിട്ടിയിരുന്നത് അതെന്താണെന്ന് ഒന്നുകൂടെ എഴുതാം നമുക്ക് നേരത്തെ ലഭിച്ച ഫോർമുലകൾ എന്തൊക്കെയാണ് പൊട്ടൻഷ്യൽ ϕ എന്നെടുത്താൽ അടുത്തതായി ഡൈഇലക്ട്രിക്ക് കോൺസ്റ്റന്റ് K എന്താണെന്ന് വിശദമായി നോക്കാം നമുക്ക് ഒരു ഡൈഇലക്ട്രിക്ക് മീഡിയം ഉണ്ടെന്നിരിക്കട്ടെ ഇതിനു ചുറ്റുമായി രണ്ടാമതൊരു ഡൈഇലക്ട്രിക്ക് മീഡിയവും ഉണ്ട് അതായത് ഇവിടെ K കോൺസ്റ്റന്റ് അല്ല ഈ രണ്ടു മീഡിയവും ചേരുന്ന ബൌണ്ടറി യിൽ വെച്ച് K മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് ബൌണ്ടറി കണ്ടീഷൻ ആവശ്യമായുണ്ട് ഇത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡൈവേർജൻസ് തിയറം അതായത് എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കാണാവുന്നതാണ് അപ്പോൾ ഗോസ്സ് തിയറം Gauss's theorem അനുസരിച്ച് D⟂2 D⟂1 എന്നിവ രണ്ടാമത്തെയും ഒന്നാമത്തെയും മീഡിയത്തിലേക്ക് ലംബമായുള്ള ഡിസ്പ്ലേസ്മെന്റ് കംപോണന്റ് ആണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം ചിത്രത്തിൽ കാണുന്നതുപോലെ ഇവിടെ ഡൈഇലക്ട്രിക്ക് കോൺസ്റ്റന്റ് യഥാക്രമം K1 K2 ആയിട്ടുള്ള രണ്ടു ഡൈഇലക്ട്രിക്ക് മാധ്യമങ്ങൾ സന്ധിക്കുന്നുണ്ടെന്ന് കരുതുക ഇതിൽ ഒരു മാധ്യമം വാക്വം ആയാലും പ്രശ്നമില്ല ഈ മാധ്യമങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് യഥാക്രമം D1 D2 എന്നിരിക്കട്ടെ ഇവ രണ്ടും ചേരുന്ന ബൌണ്ടറിയിൽ ഞാൻ ഒരു ഗോസിയൻ ബോക്സ് എടുക്കുന്നെന്നിരിക്കട്ടെ ഇതിന്റെ രണ്ടു ഛേദതലങ്ങളിൽ വരച്ചിരിക്കുന്ന ലംബം ചിത്രത്തിൽ കാണാം ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഗോസ്സ് തിയറം ഇവിടെ പ്രയോഗിക്കാം അതായത് ഇതിൽ നിന്നും അതായത് അടുത്തതായി ഞാൻ ഈ ബോക്സിന്റെ വലുപ്പം കുറച്ചു കുറച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ ഇക്വേഷന്റെ ഇടതുവശത്തുള്ള പദം മാറ്റി എന്നെഴുതാവുന്നതാണ് ഇവിടെ n 12 n 21 ഇവ ഒന്നാമത്തെ മാധ്യമത്തിൽ നിന്നും രണ്ടാമത്തേതിലേക്കും തിരിച്ചുമുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് ബോക്സ് വളരെ വളരെ ചെറുതായി മാറുമ്പോൾ ഇതിൽ ഉണ്ടാകുന്ന സ്വതന്ത്ര വോളിയം ചാർജ് ഡെൻസിറ്റി സ്വതന്ത്ര സർഫേസ് ചാർജ് ഡെൻസിറ്റിയ്ക്കു തുല്യമാകുന്നു അപ്പോൾ ഇക്വേഷൻ അതായത് ഫ്രീ ചാർജ് സീറോ ആണെങ്കിൽ അതിനർത്ഥം D⟂ തുടർച്ചയായുള്ളതാണ് എന്നാണ് അതുതന്നെയായിരിക്കും ഒരു ബൌണ്ടറി കണ്ടീഷൻ ഇനി അടുത്ത ബൌണ്ടറി കണ്ടീഷൻ എന്താണെന്ന് നോക്കാം രണ്ടു മീഡിയവും സന്ധിക്കുന്ന അതിർത്തിരേഖയ്ക്കു രണ്ടുവശത്തുമുള്ള ഇലക്ട്രിക്ക് ഫീൽഡ് നോക്കാം ഇവിടെ ഒരുവശത്ത് ഫീൽഡ് E 1 മറുവശത്ത് E 2 എന്നിരിക്കട്ടെ നമുക്കറിയാം ആണെന്ന് അപ്പോൾ രണ്ടു മാധ്യമവും സന്ധിക്കുന്ന രേഖയിൽ ഒരു വലയം എടുത്ത് സ്റ്റോക്ക് തിയറം stoke's theorem പ്രയോഗിച്ചാൽ ഇത് മറ്റൊരുവിധത്തിൽ പറഞ്ഞാൽ മാധ്യമം സന്ധിക്കുന്ന അതിർത്തി രേഖയ്ക്ക് കുറുകെ V തുടർച്ചയായുള്ളതാണ് അഥവാ കണ്ടിന്യൂവസ് ആണെന്നർത്ഥം ഇതെല്ലാം ചേർത്ത് നമുക്ക് സംഗ്രഹിച്ചെഴുതാം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു പ്രശ്നത്തിനുത്തരം എങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇതിനായി നമുക്ക് എന്തൊക്കെ അറിയാവുന്നതായുണ്ട് എന്ന് നോക്കാം നമുക്കറിയാം ഇതിനുപുറമെ നമുക്ക് നേരത്തെ കോൺസ്റ്റിട്യൂട്ടിവ് റിലേഷൻ എന്നും കിട്ടിയിട്ടുണ്ട് ഇത് ലോക്കൽ പോളറൈസേഷൻ P മായി ബന്ധപ്പെടുത്തിയും എഴുതാം അതായത് ഇതിനോടുകൂടെ ബൌണ്ടറി കണ്ടീഷനുകളും ചേർത്തു ബൌണ്ടറി കണ്ടീഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടു മാധ്യമങ്ങൾ സന്ധിക്കുന്ന അതിർത്തി രേഖയ്ക്കിരുവശവും ഉള്ള D⟂ തമ്മിലുള്ള വ്യത്യാസം 𝜎 free യ്ക്കു തുല്യമായിരിക്കും മാധ്യമം സന്ധിക്കുന്ന അതിർത്തി രേഖയ്ക്ക് കുറുകെ V തുടർച്ചയായുള്ളതാണ് അഥവാ കണ്ടിന്യൂവസ് ആയിരിക്കും ഇത്രയും വസ്തുതകൾ ഉപയോഗിച്ച് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കോൺസ്റ്റിട്യൂട്ടിവ് റിലേഷൻഷിപ്പ് ലഭിച്ചതുകൊണ്ട് നമുക്ക് ലീനിയർ ഡൈഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട ഏതു പ്രശ്നവും പരിഹരിക്കാവുന്നതാണ് ഏറ്റവും ലളിതമായ ഉദാഹരണമായി ഞാൻ ഇവിടെ ഡൈഇലക്ട്രിക്ക് കോൺസ്റ്റന്റ് K ആയിട്ടുള്ള ഒരു ഇൻഫിനിറ്റ് ഡൈഇലക്ട്രിക്ക് മീഡിയത്തിലുള്ള പോയിന്റ് ചാർജ് എടുക്കുകയാണ് നിങ്ങൾ നേരത്തെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിച്ചതനുസരിച്ച് ഇലക്ട്രിക്ക് ഫീൽഡ് ഡൈഇലക്ട്രിക്ക് മീഡിയത്തിന്റെ സാന്നിധ്യം കാരണം ഇലക്ട്രിക്ക് ഫീൽഡ് 1 K മടങ്ങായി കുറയുന്നു ഇതേ ഫോർമുല ഗണിതശാസ്ത്രപരമായി ലഭ്യമാക്കാം നമുക്കറിയാം r എന്ന ബിന്ദു ഒറിജിൻ ആയി എടുക്കുകയാണെങ്കിൽ ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ അടുത്തതായി നമുക്കറിയാം ഇതിൽ നിന്നും ഒരു രേഖീയ ഡൈഇലക്ട്രിക്കിൽ ഇത് നമുക്ക് എന്ന് എഴുതാവുന്നതാണ് ഇവിടെ 2 V എന്നത് V ന്റെ ലാപ്ലാഷിയെൻ ആണ് ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് 2 V നുള്ള ഇക്വേഷൻ ലഭിക്കും

അപ്പോൾ ഇതാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പ്രശ്നത്തിനുള്ള ഉത്തരം ലഭിക്കാനുള്ള ഇക്വേഷൻ പക്ഷെ ഉത്തരം നമുക്ക് നേരത്തെതന്നെ അറിയാമല്ലോ അതായത് ഇത് ഒരു സ്വതന്ത്ര പോയിന്റ് ചാർജ് ഇക്വേഷനു സമമാണ് സ്വതന്ത്ര പോയിന്റ് ചാർജിന് എന്നാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നാണ് അതിനർത്ഥം ഇവിടെ V എന്നത് ഫ്രീ ചാർജ് ഇക്വേഷനെ 1K കൊണ്ട് ഗുണിച്ചതായിരിക്കും എന്നാണ് അതായത് ഇതുപോലെ ബാക്കി സൊല്യൂഷൻ കൂടി കാണാവുന്നതാണ് അടുത്ത ക്ലാസ്സിൽ ലീനിയർ ഡൈഇലക്ട്രിക്കിന്റെ സാന്നിധ്യത്തിൽ ചാർജ് വിന്യാസം കാരണമുണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക്ക് ഫീൽഡും കാണുന്ന കുറച്ചു ഉദാഹരണങ്ങൾ കൂടെ നമുക്ക് ചർച്ച ചെയ്യാം